ഫീൽഡ് തിയറി പഠനം നമുക്ക് ഇപ്പോൾ തുടരാം അവസാന രണ്ട് വീഡിയോകളിൽ ഫീൽഡ് എക്സ്റ്റൻഷൻ വഴി കിട്ടിയ ഫീൽഡുകൾ ഫീൽഡ് സിദ്ധാന്തത്തിലെ പഠനത്തിന്റെ പ്രാഥമിക വസ്തുക്കളാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു റിംഗ്സ് കേസിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നമ്മൾ സാധാരണ ഫീൽഡുകൾ പരിഗണിക്കും നമ്മൾ F നെ കാണാൻ പോകുന്നത് K യുടെ ഉപഫീൽഡായാണ് അതിനാൽ അതാണ് നമ്മളുടെ പ്രധാന കേസ് K ഓവർ F ഒരു ഫീൽഡ് എക്സ്റ്റൻഷൻ ആണെന്ന് നമ്മൾ പറയുന്നു പഠനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം ഇതാണ് K യുടെ ഒരു എലമെന്റ് F ഇൽ ആൾജിബ്രായിക്ക് ആകുമ്പോഴോ ട്രാൻസ്ക്കൻഡന്റൽ ആകുമ്പോഴോ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ചർച്ച ചെയ്തു ഈ രണ്ട് സങ്കൽപ്പങ്ങളെയും നമ്മൾ നിർവചിക്കുന്നു F ഇൽ എന്നത് വളരെ പ്രധാനമാണെന്ന് ഞാൻ ഊന്നിപ്പറയുന്നു ഇന്ന് ഈ പഠനം ഫീൽഡ് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ടതാണെന്നും ആൽഫ വലിയ ഫീൽഡിന്റെ ഒരു ഘടകമാണെന്നും ഞാൻ അനുമാനിക്കാൻ പോകുന്നു Fx നെ Fα യിലേക്ക് അയയ്ക്കുന്ന റിംഗ് ഹോമോമോർഫിസം ആണെന്നും ആൽഫ ആൾജിബ്രായിക്ക് ആണോ അല്ലയോ എന്നത് ഈ ഹോമോമോർഫിസത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും നമ്മൾ കരുതുന്നു ആൽഫ ആൾജിബ്രായിക്ക് ആണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് കേർണൽ ഫൈ 0 അല്ല ആൽഫ ട്രാൻസ്ക്കൻഡന്റൽ ആണെങ്കിൽ കേർണൽ ഫൈ 0 ആണ് ആൽഫ ആൾജിബ്രായിക്ക് ആണെന്ന് കരുതുക കേർണൽ ഫൈ യഥാർത്ഥത്തിൽ ഒരു മോണിക് സൃഷ്ടിച്ച ഒരു പ്രധാന ഐഡിയൽ ആണ് മോണിക് ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ f Monic irreducible polynomial f ഈ വാക്കുകൾ ഞാൻ ഊന്നിപ്പറയുന്നു കാരണം പിഐഡി പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയ്നിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഒരു ഫീൽഡിന് മുകളിലുള്ള ഒരു വേരിയബിളിലെ പോളിനോമിയൽ റിംഗ് ഒരു പിഐഡി എന്ന് വിളിക്കപ്പെടുന്നു ആ റിങിലെ ഏതൊരു ഐഡിയലും ഒരു പ്രധാന ഐഡിയലാണ് ആൽഫ ആൾജിബ്രായിക്ക് ആണെങ്കിൽ അതിനർത്ഥം കേർണൽ ഫൈ യഥാർത്ഥത്തിൽ ഒരു നോൺജെറോ ഐഡിയലാണ് ആ ഐഡിയലിന്റെ ജനറേറ്റർ നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നുവെന്നത് ഓർക്കുക ആ ഐഡിയലിലെ ഏറ്റവും കുറഞ്ഞ ഡിഗ്രി പോളിനോമിയൽ നമ്മൾ നോക്കുന്നു പ്രമുഖ കോയിഫിഷ്യന്റ് ഉപയോഗിച്ച് വിഭജിച്ച് അതിനെ മോണിക് ആക്കാമെന്ന് നമ്മൾ വ്യക്തമാക്കുന്നതിനാൽ നമുക്ക് എല്ലായ്പ്പോഴും മോണിക് ആണെന്ന് അനുമാനിക്കാം എന്നിട്ട് അത് ഇർറെഡ്യൂസിബിൾ ആയിത്തീരുന്നു കാരണം ഇത് റെഡ്യൂസിബിൾ ആണെങ്കിൽ അത് രണ്ട് ചെറിയ ഡിഗ്രി പോളിനോമിയലുകളുടെ പ്രോഡക്റ്റ് ആണ് പക്ഷേ പോസിറ്റീവ് ഡിഗ്രി പോളിനോമിയലുകൾ എന്നാൽ ആ പോളിനോമിയൽ വഴി അവ സൃഷ്ടിക്കാൻ കഴിയില്ല കാരണം K ഒരു ഫീൽഡ് F എക്സ് മോഡ് കേർണൽ ഫൈ K യുടെ ഉപറിങിന് ഐസോമോർഫിക് ആണ് അതിനാൽ ഇത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണ് ഒരിക്കൽ അത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആയാൽ കേർണൽ ഫൈ ഒരു പ്രൈം ഐഡിയലാണ് അതിനാൽ ഇത് ഒരു മോണിക് ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ സൃഷ്ടിച്ചതാണ് ഇത് ഇതിനകം തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളുടെ പുനരവലോകനവുമാണ് ഇപ്പോൾ ഈ f നമ്മൾക്ക് വളരെ പ്രധാനമാണ് അതിനാൽ കെയിലെ ആൽഫ ആൾജിബ്രായിക്ക് ആണെങ്കിൽ ആൽഫയുമായി അറ്റാച്ചുചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇനിപ്പറയുന്നവയാണ് പോളിനോമിയൽ f ജനറേറ്റ് ചെയ്യുന്ന മോണിക് ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ ഇത് കേണൽ F ജനറേറ്റ് ചെയ്യുന്ന Fx ആണെന്ന് ഓർമ്മിക്കുക ഞാൻ നേരത്തെ നിർവചിച്ച ഫൈയെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് വിളിക്കുന്നു ഇത് പ്രധാനമാണ് ഇതിനെ F ലുള്ള ആൽഫയുടെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് വിളിക്കുന്നു ഇത് നമ്മളുടെ പക്കലുള്ള ഒരു പ്രധാന വിവരമാണ് കാരണം ഇത് കേർണൽ ഫൈയുടെ ജനറേറ്ററാണ് അത് മോണിക് ആണെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അത് യൂണിക് ആയിരിക്കും കാരണം നമുക്ക് മറ്റൊരു ജനറേറ്റർ ലഭിക്കുന്നതിനുള്ള മാർഗം ഫീൽഡിൽ ഉള്ള ഒരു യൂണിറ്റ് കൊണ്ട് ഗുണിക്കുക എന്നതാണ് എന്നാൽ ഇത് നിങ്ങൾ ഒരു മോണിക് പോളിനോമിയലിൽ ആരംഭിച്ച് ഒരു യൂണിറ്റിനാൽ ഗുണിച്ചാൽ അത് മേലിൽ മോണിക് ആയിരിക്കില്ല ഇത് മോണിക് ആണെന്ന് നമ്മൾ നിർബന്ധിക്കുമ്പോൾ നമ്മൾ അതിനെ അദ്വിതീയമാക്കുന്നു ഈ ആശയം വ്യക്തമാക്കുന്നതിന് കുറച്ച് ദ്രുത ഉദാഹരണങ്ങൾ ഞാൻ തരാം നമുക്ക് K R F Q എടുക്കാം ഇത് ഒരു ഫീൽഡ് എക്സ്റ്റൻഷനാണ് നമുക്ക് ആൽഫയെ റൂട്ട് 2 ആക്കാം F x മുതൽ F റൂട്ട് 2 വരെ കേണൽ ഫൈ x സ്ക്വയേർഡ് മൈനസ് 2 സൃഷ്ടിച്ചതാണെന്ന് കാണിക്കുന്നത് എളുപ്പമല്ല എക്സ് സ്ക്വയേർഡ് മൈനസ് 2 യഥാർത്ഥത്തിൽ ഇർറെഡ്യൂസിബിൾ പോളിനോമിയലാണ് കാരണം ഇത് ഒരു ഡിഗ്രി 2 പോളിനോമിയലാണ് അതിന് Q ൽ റൂട്ടുകളില്ല അതിനാൽ Q x ൽ ഇത് റെഡ്യൂസിബിൾ അല്ല Q ൽ റൂട്ട് 2 ന്റെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ x സ്ക്വയർ മൈനസ് 2 ആണ് 2x2 - 4 ഉം കേർണൽ ഫൈയെ ജനറേറ്റുചെയ്യുന്നു കാരണം രണ്ട് Q ലെ യൂണിറ്റാണ് എന്നാൽ 2x2 - 4 മോണിക് അല്ല Q ലുള്ള ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നില്ല ഇത് അദ്വിതീയമാക്കുന്നതിനുള്ള ഒരു കൺവെൻഷനാണ് അത് മോണിക് ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ഇവിടെ ശരിക്കും എന്താണ് ചെയ്യുന്നത് F ൽ ആൽഫയുടെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ F x ലെ ഏറ്റവും കുറഞ്ഞ ഡിഗ്രി മോണിക് പോളിനോമിയൽ F x ആണ് ആൽഫയ്ക്ക് മുകളിലുള്ള ആൽഫയുടെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ ഇത് ആൽഫയെ ഒരു റൂട്ടായി കണക്കാക്കുന്നു F α 0 ആണ് അതാണ് അവസാനത്തെ കാര്യം കേർണൽ ഫൈ ആൽഫ ഒരു റൂട്ട് ആയിട്ടുള്ള എല്ലാ പോളിനോമിയലുകളുടെയും ഗണമാണ് അവയിൽ ഏറ്റവും ഡിഗ്രി കുറഞ്ഞതാണ് ജനറേറ്റർ കൂടാതെ മോണിക് ആണ് എന്നത് കൂടി ഉപയോഗിക്കുമ്പോൾ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ ലഭിക്കുകയും ചെയ്യുന്നു മറ്റൊരു ഉദാഹരണം നമുക്ക് C ഓവർ Q എടുത്ത് ആൽഫയെ i ആയി എടുക്കാം i ന് മുകളിലുള്ള i യുടെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്താണ് -1 ന്റെ റൂട്ട് ആണ് i ഇവിടെ ഇത് വെറും x2 1 അല്ലാതെ മറ്റൊന്നുമല്ല അതുപോലെ നിങ്ങൾ R ഓവർ Q C ഓവർ R α i യും എടുത്താൽ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ x2 1 ആണ് മറുവശത്ത് C ന് മുകളിലുള്ള ഫീൽഡ് എക്സ്റ്റൻഷൻ എടുക്കുകയാണെങ്കിൽ ഫീൽഡുകൾ ഒന്നുതന്നെയാണ് ഐ ഓവർ സി യുടെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്താണ് തീർച്ചയായും x സ്ക്വയേർഡ് പ്ലസ് 1 ന് i ഒരു റൂട്ടുണ്ട് ഇത് R അല്ലെങ്കിൽ Q നേക്കാൾ കുറഞ്ഞ ഡിഗ്രിയാണ് പക്ഷേ ഇത് C നെക്കാൾ കുറഞ്ഞ ഡിഗ്രി പോളിനോമിയലല്ല ഇത് x മൈനസ് i ആണ് ഇവിടെ ഡിഗ്രി 2 ആണ് എന്നാൽ ഇവിടെ ഡിഗ്രി 1 ആണ് ഇത് വീണ്ടും ആൾജിബ്രായിക്ക് ആണോ അല്ലയോ എന്ന് അടിസ്ഥാന ഫീൽഡിന്റെ ട്രാക്ക് സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കാണിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ആൾജിബ്രായിക്ക് ഘടകങ്ങളുണ്ടെങ്കിൽ അടിസ്ഥാന ഫീൽഡ് മാറ്റുകയാണെങ്കിൽ ഇർറെഡ്യൂസിബിൾ പോളിനോമിയലും മാറുന്നു നമ്മൾ തുടരുന്നതിനുമുമ്പ് ഞാൻ ഒരു അവസാന ഉദാഹരണം ചെയ്യും നമുക്ക് ഉദാഹരണമായി R ഓവർ Q എടുത്ത് റൂട്ട് 2 പ്ലസ് റൂട്ട് 3 എടുക്കാം സാങ്കേതികമായി പറഞ്ഞാൽ ഇത് ആൾജിബ്രായിക്ക് ആണോ അല്ലയോ എന്ന് പോലും നമുക്ക് അറിയില്ല ഇത് ആൾജിബ്രായിക്ക് ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും ഇത് പിന്നീട് ഞാൻ വീണ്ടും ചെയ്യാനിടയുള്ള ഒരു സാങ്കേതികത മാത്രമാണ് എന്നാൽ ആൽഫ ആൾജിബ്രായിക്ക് ആണോയെന്ന് എങ്ങനെ കണ്ടെത്താമെന്ന് ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറയട്ടെ ഈ വീഡിയോയിലോ അടുത്ത വീഡിയോയിലോ ചില ആൾജിബ്രായിക്ക് ഘടകങ്ങൾ യഥാർത്ഥത്തിൽ ആൾജിബ്രായിക്ക് ആണെന്ന് നമ്മൾ തെളിയിക്കും ഇത് ആൾജിബ്രായിക്ക് ആണ് അത് എന്താണെങ്കിൽ അത് Q ലെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയലാണ് ഈ ഉദാഹരണത്തിൽ ഞാൻ വേഗത്തിൽ ചെയ്യേണ്ടത് ഇതാണ് അതിനാൽ നമ്മൾ ചെയ്യുന്നത് ആൽഫ റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ന് തുല്യമാണെന്ന് നമ്മൾ കരുതുന്നു ഞാൻ ഒരു കണക്കുകൂട്ടൽ നടത്തും അതിനാൽ ഇതിനർത്ഥം ആൽഫ മൈനസ് റൂട്ട് 2 ന് തുല്യമാണ് റൂട്ട് 3 അതിനർത്ഥം ആൽഫ മൈനസ് റൂട്ട് 2 മുഴുവൻ സ്ക്വയറും 3 ന് തുല്യമാണ് ഞാൻ ഇവിടെ തുടരും അതായത് ആൽഫ സ്ക്വയേർഡ് മൈനസ് 2 റൂട്ട് 2 റൂട്ട് ആൽഫ പ്ലസ് 2 3 ന് തുല്യമാണ് ഉചിതമായ രീതിയിൽ പവർ എടുക്കുക അങ്ങനെ നമ്മൾ റാഷണൽ പോളിനോമിയലിൽ അവസാനിക്കും ഇപ്പോൾ ഞാൻ ഇത് റൂട്ട് ചെയ്യാൻ പോകുന്നു ഇത് യഥാർത്ഥത്തിൽ മൂന്ന് ആണ് ഇപ്പോൾ ഞാൻ രണ്ട് റൂട്ട് 2 ആൽഫ ടേം മറുവശത്ത് കൊണ്ടുവരാൻ പോകുന്നു എനിക്ക് ആൽഫ സ്ക്വയേർഡ് മൈനസ് 1 2 റൂട്ട് 2 ആൽഫയ്ക്ക് തുല്യമാണ് കാരണം ഇത് 2 മൈനസ് 1 ആണ് ഇപ്പോൾ ഞാൻ ഇരുവശത്തും സ്ക്വയേർ ചെയ്യാൻ പോകുന്നു ആൽഫ സ്ക്വയേർഡ് മൈനസ് 1 ഹോൾ സ്ക്വയറും 2 റൂട്ട് 2 ആൽഫ ഹോൾ സ്ക്വയറാണ് അതായത് 8 ആൽഫ സ്ക്വയർ രണ്ട് റൂട്ട് രണ്ട് സ്ക്വയർ 8 ഉം ആൽഫ സ്ക്വയറും ആയതിനാൽ ആൽഫ പവർ 4 മൈനസ് 2 ആൽഫ സ്ക്വയേർഡ് പ്ലസ് 1 8 ആൽഫ സ്ക്വയറിന് തുല്യമാണ് ഒടുവിൽ എല്ലാം ഒരു വശത്ത് ഇടുകയാണെങ്കിൽ x4 - 10x2 1 0 ന് തുല്യവുമാണ് അതിനാൽ Q വിൽ ആൽഫ ആൾജിബ്രായിക്ക് ആണെന്ന് നമുക്കറിയാം ആൽഫ ഒരു റാഷണൽ പോളിനോമിയലിനെ തൃപ്തിപ്പെടുത്തുന്നു ഇത് തീർച്ചയായും ആൾജിബ്രായിക്ക് ആണ് ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ ആണെന്ന് നമുക്കറിയാം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ആൽഫ ഒരു റൂട്ട് ആകുന്ന ഏറ്റവും കുറഞ്ഞ ഡിഗ്രി മോണിക് പോളിനോമിയൽ ആൽഫയുടെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയലാണെന്ന് ഓർക്കുക ഇത് അത്തരത്തിലുള്ള ഒന്നാണ് ഇത് ഒരു പോളിനോമിയലാണ് ആൽഫയ്ക്ക് ഒരു റൂട്ട് ഉള്ളതിനാൽ ഇത് ആൽഫയുടെ അവിശ്വസനീയമായ പോളിനോമിയൽ ആയിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നാൽ ആ സമയത്ത് ആൽഫയുടെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ നമുക്ക് പറയാൻ കഴിയുന്നത് അത് എക്സ് പവർ 4 മൈനസ് 10 എക്സ് സ്ക്വയറും പ്ലസ് 1 ഓകെയും വിഭജിക്കുന്നു എന്നതാണ് വാസ്തവത്തിൽ ഇത് ഇർറെഡ്യൂസിബിൾപോളിനോമിയലിന് തുല്യമാണ് ഇത് കൃത്യമായി x പവർ 4 മൈനസ് 10 x സ്ക്വയേർഡ് പ്ലസ് 1 ആണ് ഇത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗം ഇത് ഇർറെഡ്യൂസിബിൾ ആണെന്ന് തെളിയിക്കുകയാണ് എന്നാൽ അത് അത്ര എളുപ്പമല്ല കാരണം ഐസൻസ്റ്റൈൻ മാനദണ്ഡം ബാധകമല്ല മാത്രമല്ല നമുക്കറിയാവുന്ന മറ്റ് സാങ്കേതികതകളൊന്നും എളുപ്പത്തിൽ ബാധകമല്ല നമ്മൾ ചെയ്യേണ്ടത് കുറച്ചുകൂടി സൂക്ഷ്മമായ ഒന്നാണ് അടുത്ത വീഡിയോയിൽ ഇത് നമുക്ക് ചെയ്യാം ഫീൽഡ് എക്സ്റ്റെൻഷനുകളുടെ ഡിഗ്രിയെക്കുറിച്ചും മറ്റും സംസാരിച്ചുകഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഇർറെഡ്യൂസിബിൾ ആണെന്ന് തെളിയും നമ്മൾ ഇതിലേക്ക് അടുത്ത വീഡിയോയിൽ മടങ്ങിവരും ഏതുവിധേനയും എന്തെങ്കിലും ഇർറെഡ്യൂസിബിൾ ആണോ അല്ലെങ്കിൽ ആൾജിബ്രായിക്ക് ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടെത്താമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ നൽകുക എന്നതാണ് ലക്ഷ്യം നിർവചനം എഴുതുന്നതിനുമുമ്പ് ട്രാൻസ്ക്കൻഡന്റൽ ഘടകങ്ങളെക്കുറിച്ച് ഒരു പരാമർശം നടത്തട്ടെ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ക്കൻഡന്റൽ എലമെന്റ് ഉണ്ടെങ്കിൽ അത് തൃപ്തിപ്പെടുത്തുന്ന ഒരു പോളിനോമിയൽ യഥാർത്ഥത്തിൽ പൂജ്യമല്ലാത്ത പോളിനോമിയൽ ഇല്ല അതിനാൽ നമ്മൾ ഇർറെഡ്യൂസിബിൾ പോളിനോമിയലുകളെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇർറെഡ്യൂസിബിൾ പോളിനോമിയലുകൾ ആൾജിബ്രായിക്ക് മൂലകങ്ങൾക്ക് മാത്രമേ നിർവചിക്കൂ K ഓവർ F ഒരു ഫീൽഡ് എക്സ്റ്റൻഷനായിരിക്കട്ടെ കെയിലെ ആൽഫ F ന് ആൾജിബ്രായിക്ക് ആകട്ടെ ഇതാണ് ഇപ്പോൾ നിർവചനം F ന്റെ അളവ് K ഓവർ F നു പകരം ആൽഫയുടെ ഡിഗ്രി എന്ന് നിർവചിക്കപ്പെടുന്നു ഒരു എലമെന്റിന്റെ ഡിഗ്രി ഇപ്പോൾ ഒരു അടിസ്ഥാന ഫീൽഡിനു മുകളിലുള്ള ഒരു എലമെന്റിന്റെ ഡിഗ്രിയെ നിർവചിക്കുന്നു ഏത് ആൾജിബ്രായിക്ക് എലമെന്റിലും ഡിഗ്രി എന്ന് വിളിക്കുന്ന ആ ഘടകം പോളിനോമിയലിന്റെ ഡിഗ്രിക്ക് തുല്യമാണ് ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ എന്നത് ഒരു യുണീക്ക് പോളിനോമിയലാണ് Q ന് മുകളിലുള്ള ഒരു യഥാർത്ഥ സംഖ്യയായ റൂട്ട് 2 ന് മുകളിലുള്ള റൂട്ട് 2 ന്റെ ഡിഗ്രി എന്താണ് ഒരു എലമെന്റിന്റെ ഡിഗ്രിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ വലിയ ഫീൽഡും ചെറിയ ഫീൽഡും വ്യക്തമാക്കേണ്ടതുണ്ട് അത് അവസാനിച്ചു Q ന് മുകളിലുള്ള റൂട്ട് 2 ന്റെ ചെറിയ ഫീൽഡ് ഡിഗ്രി 2 ആണ് കാരണം ആ പോളിനോമിയൽ x2-2നെ തൃപ്തിപ്പെടുത്തുന്നു ഇത് വാസ്തവത്തിൽ ഇർറെഡ്യൂസിബിൾ പോളിനോമിയലാണ് Q ന് മുകളിലുള്ള റൂട്ട് 3 ന്റെ ഡിഗ്രി എന്താണ് 3 ക്ഷമിക്കണം ഞാൻ Q ന് മുകളിലുള്ള 2 ന്റെ ക്യൂബ് റൂട്ട് പറയണം മറുവശത്ത് R ന് മുകളിലുള്ള റൂട്ട് 2 ന്റെ ഡിഗ്രി എന്താണ് ഇത് യഥാർത്ഥത്തിൽ 1 ആണ് കാരണം റൂട്ട് 2 R ൽ ഉള്ളതിനാൽ ഇർറെഡ്യൂസിബിൾപോളിനോമിയൽ യഥാർത്ഥത്തിൽ x2 - 2 ആണ് സമാനമായി ഇത് 2 ന്റെ ക്യൂബ് റൂട്ടിന്റെ ഡിഗ്രി 2 ഓവർ ആർ 2 ന്റെ യഥാർത്ഥ ക്യൂബ് റൂട്ട് ആണ് ഇവിടെയും ഞാൻ പറയണം കാരണം ഇത് ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ x മൈനസ് ക്യൂബ് റൂട്ട് 2 ആണ് റൂട്ടിന് മുകളിലുള്ള സങ്കീർണ്ണ സംഖ്യയായ i യുടെ ഡിഗ്രി എന്താണ് ഇത് Q ന് മുകളിലുള്ള സങ്കീർണ്ണ സംഖ്യയുടെ 1 ഡിഗ്രിയാണ് 1 ക്ഷമിക്കണം ഇത് 1 അല്ല ഇത് 2 ആണ് കാരണം R അല്ലെങ്കിൽ Q യിൽ ഞാൻ തൃപ്തിപ്പെടുത്തുന്ന ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ x സ്ക്വയേർഡ് പ്ലസ് 1 ആണെന്നും C ക്ക് മുകളിലുള്ള i യുടെ ഡിഗ്രി 1 ആണെന്നും നമ്മൾ കണ്ടു കാരണം യഥാർത്ഥത്തിൽ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ x മൈനസ് i ആണ് ഒരു അന്തിമ പ്രസ്താവന Q ൽ ഒരു റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ന്റെ ഡിഗ്രി എന്താണ് തൃപ്തികരമായ ഒരു പോളിനോമിയൽ x4 - 10x2 1 ആണെന്ന് നമ്മൾ കണ്ടു ഈ ഘട്ടത്തിൽ എല്ലാം ഡിഗ്രി 4 നേക്കാൾ കുറവോ തുല്യമോ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും ഇത് ഇപ്പോഴുള്ളതായിരിക്കണമെന്നില്ല പക്ഷേ ഇത് 4 3 2 അല്ലെങ്കിൽ 1 ആകാം പക്ഷേ ഇത് 1 ഡിഗ്രി ആണെന്നുള്ള സാധ്യത തള്ളിക്കളയട്ടെ Q ന് മുകളിലുള്ള റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ശരിയാകരുത് കാരണം ഒരു പൊതു പ്രസ്താവന ഞാൻ ഒരു ലളിതമായ ലെമ്മ ഉണ്ടാക്കും K ഓവർ F എല്ലായ്പ്പോഴും എന്നപോലെ ഫീൽഡ് എക്സ്റ്റൻഷൻ ആയിരിക്കട്ടെ ആൽഫ K യിൽ ആയിരിക്കട്ടെ ആൽഫ F ൽ ആണെങ്കിൽ 1 ആണ് ആൽഫ F ആണെങ്കിൽ മാത്രം അതിനാൽ ഇത് ഒരു ലളിതമായ പ്രസ്താവനയാണ് എന്തുകൊണ്ട് ഇത് കാരണം F നു മുകളിലുള്ള ആൽഫയുടെ ഡിഗ്രി 1 ആണെന്ന് കരുതുക ഇത് F ന് മുകളിലുള്ള ആൽഫയുടെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയലിന് ഡിഗ്രി 1 ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ ഇതിനർത്ഥം എക്സ് മൈനസ് ആൽഫ F ഓവർ ആൽഫയുടെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയലിന് തുല്യമാണ് കാരണം ഇത് 1 ഡിഗ്രിയാണ് ഇത് മോണിക് ആണ് ഇത് എക്സ് പ്ലസ് എന്തോ ആയിരിക്കണം പക്ഷേ ഇതിന് ഒരു റൂട്ടായി ആൽഫയും ഉണ്ടായിരിക്കണം അതിനാൽ ഗുണകം മൈനസ് ആൽഫ ആയിരിക്കണം F മൈനസ് ആൽഫ എന്നത് F നു മുകളിലുള്ള ആൽഫയുടെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയലാണ് എന്നാൽ F ന് മുകളിലുള്ള F ലൈഫിന് മുകളിലുള്ള ആൽഫയുടെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓർക്കുക അതായത് എക്സ് മൈനസ് ആൽഫ യഥാർത്ഥത്തിൽ F എക്സിലാണ് ഇതിനർത്ഥം F ലാണ് കാരണം ഇത് F ന് മുകളിലുള്ള ഒരു പോളിനോമിയൽ ആണെങ്കിൽ എല്ലാ ഗുണകങ്ങളും F ലാണ് മൈനസ് ആൽഫ F ആണ് വ്യക്തമായും ആൽഫ F ആൽഫ F ആണ് അതുപോലെ തന്നെ തിരിച്ചും ശരിയാണ് നിങ്ങൾക്ക് എല്ലായിടത്തും തിരികെ പോകാം ആൽഫ F എക്സ് മൈനസാണെങ്കിൽ ആൽഫ F എക്സ് മൈനസ് ആൽഫ ഒരു പോളിനോമിയലാണ് അതിൽ ആൽഫ ഒരു റൂട്ടാണ് ഡിഗ്രി ചെറുതായിരിക്കരുത് ഇത് F ന് മുകളിലുള്ള ആൽഫയുടെ ഇർറെഡ്യൂസിബിൾ പോളിനോമിയലായിരിക്കണം അതിനാൽ ഇത് ഡിഗ്രി 1 ആണ് അതിനർത്ഥം ഇത് ഡിഗ്രി 1 ആണെന്നും അതിനാൽ തെളിവ് പൂർത്തിയാക്കുന്നു Q ന് മുകളിലുള്ള റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ഡിഗ്രിയിലേക്ക് പോകുന്നത് 1 ആകാൻ പാടില്ല കാരണം റൂട്ട് 2 പ്ലസ് റൂട്ട് 3 തീർച്ചയായും ക്യൂവിൽ ഇല്ലെന്ന് നമുക്ക് നന്നായി അറിയാം അതിനാൽ റൂട്ട് 2 ന് മുകളിലുള്ള റൂട്ട് 2 പ്ലസ് റൂട്ട് 3 Q ഇൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ആണ് ഇപ്പോൾ നമ്മൾക്ക് മൂന്ന് സാധ്യതകളുണ്ട് നമ്മൾ പിന്നീട് ഇതിലേക്ക് തിരിച്ചുവന്ന് വാസ്തവത്തിൽ ഇത് 4 ആണെന്ന് കാണിക്കും ഈ വീഡിയോ x പവർ 4 മൈനസ് 10 x സ്ക്വയർ പ്ലസ് 1 ൽ നമ്മൾ നേരത്തെ കണക്കുകൂട്ടിയ പോളിനോമിയൽ യഥാർത്ഥത്തിൽ ഇർറെഡ്യൂസിബിൾ ആണ് കാരണം അത് ഇർറെഡ്യൂസിബിൾ പോളിനോമിയൽ ഡിഗ്രി 4 ആയിരിക്കണം ഇപ്പോൾ ഒരു ഫീൽഡ് എക്സ്റ്റൻഷൻന്റെ ഡിഗ്രി നമ്മൾ നിർവചിക്കുന്നു ഈ വീഡിയോയുടെ മറ്റ് പ്രധാന നിർവചനം ഇതാണ് K ഓവർ F ഒരു ഫീൽഡ് എക്സ്റ്റൻഷനായിരിക്കട്ടെ ഇത് ഒരു ഫീൽഡ് എക്സ്റ്റൻഷനായിരിക്കട്ടെ പകരം F നെക്കാൾ ഒരു വെക്റ്റർ സ്പെയ്സായി K പരിഗണിക്കാമെന്ന് ഞാൻ പറയും ശേഷിക്കുന്ന വീഡിയോകളിലെ കോഴ്സിന്റെ ഈ ഭാഗത്ത് നമ്മൾക്ക് കുറച്ച് ലീനിയർ ആൾജിബ്ര ആവശ്യമാണ് നിങ്ങൾ അറിയേണ്ടതുണ്ട് വെക്റ്റർ സ്പെയ്സുകൾ എന്തൊക്കെയാണ് വെക്റ്റർ സ്പെയ്സുകളുടെ ബേസ് എന്തൊക്കെയാണ് വെക്റ്റർ സെറ്റ് ഒരു വെക്റ്റർ സ്പേസ് വ്യാപിക്കുന്നു അല്ലെങ്കിൽ ഈ സങ്കൽപ്പങ്ങളെല്ലാം രേഖീയമായി സ്വതന്ത്രമാണ് മുമ്പത്തെ ചില കോഴ്സുകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിസ്ഥാന ലീനിയർ ആൾജിബ്ര ആവശ്യമാണ് K യെ ഒരു വെക്റ്റർ സ്പെയ്സായി നമുക്ക് തീർച്ചയായും ചിന്തിക്കാം ഞാൻ F ന് മുകളിൽ എന്ന് ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇത് K യെ F നെക്കാൾ ഒരു വെക്റ്റർ സ്പെയ്സായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഒരു വെക്റ്റർ സ്പേസ് എന്താണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം ഒരു F വെക്റ്റർ സ്പേസ് ഒരു അബെലിയൻ ഗ്രൂപ്പാണ് F വെക്റ്റർ സ്പേസ് സ്കെയിലർ ഗുണനമുള്ള ഒരു അബെലിയൻ ഗ്രൂപ്പാണ് ഞാൻ ലളിതമായി എഴുതാം ഇത് ഒരു ഔപചാരിക നിർവചനമല്ല അടിസ്ഥാന ലീനിയർ ആൾജിബ്രയെ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ അറിയൂ വെക്റ്റർ സ്പെയ്സുകൾ എന്തൊക്കെയാണ് അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്താണ് രേഖീയമായി സ്വതന്ത്ര വെക്റ്ററുകൾ എന്താണ് വ്യാപിക്കുന്ന വെക്ടറുകളും മറ്റും ഇത് ഒരു സ്കെയിലർ ഗുണനമുള്ള ഒരു അബെലിയൻ ഗ്രൂപ്പാണ് അതിനർത്ഥം F ന്റെ ഒരു എലമെന്റ് സ്കേലറുകൾ എന്ന് വിളിക്കുകയും V ൽ ഒരു വെക്റ്റർ നൽകുകയും ചെയ്താൽ നമുക്ക് അറിയേണ്ടത് ലാംഡ ഡോട്ട് വി എന്ന ആശയം ഉണ്ട് സാധാരണ ഉദാഹരണം R 2 ആണ് R വെക്റ്റർ സ്പേസ് കാരണം R 2 എന്നത് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അബിലിയൻ ഗ്രൂപ്പാണ് മാത്രമല്ല നിങ്ങൾക്ക് ഏത് വെക്ടറിനെയും ഒരു യഥാർത്ഥ സംഖ്യ കൊണ്ട് ഗുണിക്കാം കാരണം നിങ്ങൾക്ക് ഓരോ കോർഡിനേറ്റും ആ വെക്റ്റർ കൊണ്ട് ഗുണിക്കാം ഒരു വെക്റ്റർ സ്പേസ് എന്താണെന്നതിന്റെ ദ്രുത അവലോകനമാണിത് ഇപ്പോൾ K തീർച്ചയായും ഒരു വളയത്തിന്റെ നിർവചനത്തിന്റെ ഭാഗമായ സങ്കലനത്തിൻകീഴിലുള്ള ഒരു അബെലിയൻ ഗ്രൂപ്പാണ് K കൂട്ടിച്ചേർക്കലിനു കീഴിലുള്ള ഒരു അബെലിയൻ ഗ്രൂപ്പാണ് ഒരു വെക്റ്റർ സ്പെയ്സിനുള്ള ആദ്യ വ്യവസ്ഥ അതാണ് നമുക്ക് തീർച്ചയായും K യുടെ ഒരു മൂലകത്തെ F മൂലകവുമായി ഗുണിക്കാം കാരണം ഒരു വെക്റ്റർ സ്പെയ്സിന് അതാണ് വേണ്ടതെന്ന് ഓർക്കുക ഇത് യഥാർത്ഥത്തിൽ K ക്ക് വളരെയധികം ഘടനയുണ്ട് അതിനാൽ വാസ്തവത്തിൽ K ക്ക് ഗുണനമുണ്ട് വാസ്തവത്തിൽ F ഘടനയെക്കാൾ ഒരു വെക്റ്റർ സ്ഥലത്തേക്കാൾ വളരെയധികം ഘടനയാണ് ഇതിന് ഉള്ളത് കാരണം നിങ്ങൾക്ക് K യുടെ ഏതെങ്കിലും രണ്ട് ഘടകങ്ങളെ ഗുണിക്കാം K യുടെ ഒരു മൂലകത്തെ F മൂലകവുമായി ഗുണിക്കുന്നതിനെക്കുറിച്ച് മറന്നേക്കൂ നമുക്ക് K യുടെ ഏതെങ്കിലും രണ്ട് ഘടകങ്ങളെ ഗുണിക്കാം പക്ഷേ എപ്പോൾ K യുടെ ഒരു വെക്റ്റർ സ്പെയ്സായിട്ടാണ് നമ്മൾ കരുതുന്നത് K യുടെ അധിക ഘടന നമ്മൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടെ ഒരു ആൽഫ ഉണ്ടെങ്കിൽ K യിൽ F അടങ്ങിയിട്ടുണ്ടെന്നും ചിലത് ഇവിടെ K യിലാണെന്നും ഓർക്കുക ഒരു ഡോട്ട് ആൽഫ എയെ ഒരു സ്കെയിലർ ആൽഫയായി കണക്കാക്കുന്നു ഒരു വെക്റ്റർ ഒരു ഡോട്ട് ആൽഫ ഗുണനമാണ് K യിൽ സ്ഥാപിക്കുക F ൽ നിന്ന് വരുന്ന സ്കെയിലറുകളുള്ള സ്കെയിലർ ഗുണനത്തോടുകൂടിയ ഒരു അബെലിയൻ ഗ്രൂപ്പ് നമ്മൾക്ക് ഉണ്ട് അതിനാൽ ഇത് F K ക്ക് മുകളിലുള്ള ഒരു വെക്റ്റർ സ്പേസ് ആണ് ഇത് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് നിങ്ങൾക്ക് ഒരു ഫീൽഡ് എക്സ്റ്റൻഷൻ ഉള്ളപ്പോഴെല്ലാം വലിയ ഫീൽഡിനെ F ന് മുകളിലുള്ള വെക്റ്റർ സ്പെയ്സായി നമ്മൾ കരുതുന്നു ഭാവിയിലെ വീഡിയോകളിൽ നമ്മൾ ഇത് വിശദീകരിക്കും എന്നാൽ ഞാൻ വാഗ്ദാനം ചെയ്ത നിർവചനം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാം K ഓവർ F ഒരു ഫീൽഡ് എക്സ്റ്റൻഷനായിരിക്കട്ടെ ഇപ്പോൾ F നു മുകളിലുള്ള മുഴുവൻ ഫീൽഡ് എക്സ്റ്റൻഷന്റെയും ഡിഗ്രി ഞാൻ നിർവചിക്കുന്നത് K യുടെ F വെക്റ്റർ സ്പേസ് എന്ന ഡിഗ്രി ആണ് F വെക്റ്റർ സ്പേസ് എന്ന നിലയിൽ K യുടെ ഡിഗ്രി അതിനാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നം സ്ക്വയർ ബ്രാക്കറ്റുകളിലെ K കോളൻ F ആണ് F വെക്റ്റർ സ്പേസിലെന്നപോലെ K യുടെ നിർവചനം അനുസരിച്ച് K ഓവർ F ആണ് ഇത് വിശദീകരിക്കാനും ഭാവിയിലെ വീഡിയോകളിൽ ഇത് വളരെയധികം ഉപയോഗിക്കാനും പോകുന്നുവെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ വേഗത്തിൽ നൽകട്ടെ നിങ്ങൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ സി കോളൻ ആർ 2 ആണ് കാരണം 1 കോമ i എന്നത് R നെക്കാൾ R ന്റെ C യുടെ അടിസ്ഥാനമാണ് കാരണം സങ്കീർണ്ണ സംഖ്യകളുടെ ഒരു ഘടകം എന്താണെന്നത് a b എന്നിവ യഥാർത്ഥമായ a ib രൂപത്തിലാണ് അക്കങ്ങൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 1 കോമ i R നെക്കാൾ വ്യാപിക്കുന്നു കാരണം C യുടെ ഓരോ മൂലകവും 1 i എന്നിവയുടെ R രേഖീയ സംയോജനമാണ് എന്തുകൊണ്ടാണ് അവ ഒരു അടിസ്ഥാനം സൃഷ്ടിക്കുന്നത് കാരണം അടിസ്ഥാനം ഓർമ്മിക്കുന്നത് സ്പാനിംഗ് സെറ്റാണ് അത് രേഖീയമായി സ്വതന്ത്രമായ സെറ്റാണ് ഒരു രേഖീയമായി സ്വതന്ത്ര സെറ്റ് എന്തുകൊണ്ടാണ് സ്പാൻ ചെയ്യുന്നത് എന്ന് നമ്മൾക്കറിയാം ഇത് തീർച്ചയായും R ന് മുകളിലായി വ്യാപിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് രേഖീയമായി സ്വതന്ത്രമായിരിക്കുന്നത് അതിനാൽ R നെക്കാൾ രേഖീയമായി സ്വതന്ത്രമായി ഇവിടെ എഴുതാം ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഇത് 0 തവണ 1 പ്ലസ് b തവണ i എന്ന് എഴുതാം നമുക്ക് ഒരു ബി R ൽ ആയിരിക്കട്ടെ അതിനർത്ഥം a മൈനസ് b i ന് തുല്യമാണ് അതിനർത്ഥം ബി 0 ആണെങ്കിൽ അതായത് 0 ആണെന്നാണ് കരുതുക കൂടാതെ ബി ഒരു തവണ 0 എന്നതിന് തുല്യമാണ് 0 എന്ന് കരുതപ്പെടുന്ന ബി 0 അല്ല പിന്നെ നമുക്ക് മൈനസ് എ എന്ന് എഴുതാം b യിൽ തീർച്ചയായും ഇത് R ൽ സാധ്യമല്ല എനിക്ക് R ൽ ഉണ്ടാകാൻ കഴിയാത്ത സാങ്കൽപ്പിക സംഖ്യ അതിനർത്ഥം a b എന്നിവ 0 ആണ് ഇത് കൃത്യമായി രേഖീയ സ്വാതന്ത്ര്യമാണ് ഒരു കോമയിൽ എനിക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഒരു തവണ ഒരു പ്ലസ് ബി തവണ എയേക്കാൾ 0 ഉം ബി 0 ഉം ആണ് അതിനർത്ഥം അവ രേഖീയമായി സ്വതന്ത്രമാണ് ഇത് ഒരു അടിസ്ഥാനമാണ് അതിനാൽ ഡിഗ്രി 2 ആണ് ഇപ്പോൾ ഞാൻ ഇത് അടുത്ത വീഡിയോയിൽ ശ്രദ്ധാപൂർവ്വം ചർച്ചചെയ്യും പക്ഷേ ഇതും 2 ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നു Q റൂട്ട് 2 ന് മുകളിലുള്ള ഫീൽഡ് എക്സ്റ്റൻഷന്റെ ഡിഗ്രി 2 ആണ് കാരണം ഇവിടെ 1 കോമ റൂട്ട് 2 ക്യൂ റൂട്ടിന് മുകളിലുള്ള ക്യൂ റൂട്ട് 2 ന്റെ അടിസ്ഥാനമാണ് കാരണം റൂട്ട് 2 ക്യൂ റൂട്ടിന് മുകളിലുള്ള ആൾജിബ്രായിക്ക് ആണ് യഥാർത്ഥത്തിൽ ക്യൂ സ്ക്വയർ ബ്രാക്കറ്റ് റൂട്ട് 2 ന് തുല്യമാണ് മാത്രമല്ല ഇതെല്ലാം റൂട്ട് 2 ലെ പോളിനോമിയലുകളാണെന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഡിഗ്രി രണ്ട് പോളിനോമിയൽസ് ഡിഗ്രി ഒരു പോളിനോമിയൽ എന്നാൽ 1 റൂട്ട് 2 എന്നിവ മതിയാകും അവസാനമായി Q ന് മുകളിലുള്ള Qπ അനന്തമാണെന്ന് ഞാൻ പറയും കാരണം 1 കോമ π എന്നത് ട്രാൻസെൻഡെന്റൽ മൂലകമാണ് രേഖീയമായി സ്വതന്ത്രമായ അവകാശം കാരണം പൈയുടെ എല്ലാ ശക്തികളും ഒരു രേഖീയമായി സ്വതന്ത്രമായ ഒരു സെറ്റായി മാറുന്നു കാരണം അവ രേഖീയമായി സ്വതന്ത്രമല്ലെങ്കിൽ ചില പരിമിത രേഖീയ സംയോജനം 0 ആണ് എന്നാൽ ഇതിന്റെ പരിമിതമായ രേഖീയ സംയോജനം 0 ആണെങ്കിൽ അതിനർത്ഥം പൈ Q ൽ ആൾജിബ്രായിക്ക് ആണ് ഞാൻ ഇവിടെ ചെയ്ത മൂന്ന് ഉദാഹരണങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് ശ്രദ്ധാപൂർവ്വം ചിന്തിക്കുക രണ്ടാമത്തേത് വിശദീകരിച്ചത് ആദ്യത്തേതിന് സമാനമാണ് മൂന്നാമത്തേത് Q ൽ പൈയെ മറികടക്കുന്നതിന്റെ അനന്തരഫലമാണ് അതിനർത്ഥം നിങ്ങൾക്ക് അനന്തമായ രേഖീയ സ്വതന്ത്ര സെറ്റ് ഉണ്ട് അതായത് ഡിഗ്രി അടിസ്ഥാനപരമായി ഡിഗ്രി അനന്തമാണ് Q ന് മുകളിലുള്ള Qπ യുടെ ഡിഗ്രി അനന്തമാണ് ഞാൻ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ നമ്മൾ ഫീൽഡ് എക്സ്റ്റെൻഷനുകളെക്കുറിച്ച് സംസാരിക്കുകയും ആ മാറ്റത്തിന്റെ കൂടുതൽ സവിശേഷതകൾ ചർച്ച ചെയ്യുകയും ചെയ്യും